ഹലോ എല്ലാവർക്കും സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള എന്റെ കോഴ്സിലേക്ക് സ്വാഗതം എൻപിടെൽ മൂക്കിലൂടെ ഈ കോഴ്സ് നൽകുന്ന നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലാണ് ഇത് ആദ്യത്തെ മൊഡ്യൂളാണ് മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് പ്രഭാഷണങ്ങൾ പൂർത്തിയാക്കി ഇത് പതിമൂന്ന് പ്രഭാഷണമാണ് ഈ ആഴ്ച നിങ്ങൾക്ക് മറ്റൊരു രസകരമായ ആഴ്ചയായിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ കഥകൾ പറയുന്നതായി കാണപ്പെടുന്നു ഞാൻ നിങ്ങളോട് കൂടുതൽ കഥകൾ പറയാൻ പോകുന്നു കഥകൾ നിങ്ങളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നതാണ് ഈ ആഴ്ചയിലെ കാരണം ആശയങ്ങൾ വളരെ വ്യക്തമായി അവയെ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക മാത്രമല്ല അത് ചെയ്യുകയുമില്ല നിങ്ങളെ അവ എളുപ്പത്തിൽ മറക്കാൻ പ്രേരിപ്പിക്കുന്നതിനാൽ ഞാൻ രസകരമായ ചിലത് ഉപയോഗിക്കാൻ പോകുന്നു ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ ആഴ്ചയിലെ വിഷയം എന്താണ് ഈ ആഴ്ച നമ്മൾ ആരംഭിക്കേണ്ട ശീലങ്ങളെക്കുറിച്ചും തുടർന്ന് കുറഞ്ഞത് മൂന്ന് പ്രഭാഷണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പോകുന്നു ഞാൻ ശീലങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു തുടർന്ന് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ നിർത്താം അല്ലെങ്കിൽ മോശം ശീലങ്ങൾ എങ്ങനെ തകർക്കാം പിന്നെ എങ്ങനെ നല്ല ശീലങ്ങൾ വികസിപ്പിക്കാം സാധാരണയായി ഞാൻ ഈ ആഴ്ച പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് വേഗത്തിൽ അവസാന പ്രഭാഷണത്തിലേക്ക് മടങ്ങാം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്താണ് ചർച്ച ചെയ്തതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക കഴിഞ്ഞയാഴ്ച ഞങ്ങൾ സമ്മർദ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടർന്ന് ആ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിൽ അടിച്ചമർത്താൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾ വികസിപ്പിക്കേണ്ട ഒരു പ്രധാന സോഫ്റ്റ് സ്കിൽ ആണ് റെഗുലേഷൻ അത് നിങ്ങളെ വളരെ മികച്ചതാക്കും വ്യക്തിപരമോ തൊഴിൽപരമോ ആയ വിജയത്തിലും തുടർന്ന് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിലും വളരെ ആവശ്യമുള്ളതാണ് സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നുറുങ്ങുകളും മൊത്തത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിന് അതിനാൽ നിങ്ങൾ ചില ചിന്തകൾ നടത്തേണ്ടതുണ്ട് തുടർന്ന് ഞാൻ നിങ്ങൾക്ക് നുറുങ്ങുകൾ നൽകുന്നു നിങ്ങൾ എന്തിനാണ് അത് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി നിങ്ങൾ സ്വയം ശക്തിപ്പെടുത്തുന്നതിനും സന്തോഷത്തോടെയിരിക്കുന്നതിനുമായി സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവരുമായി യുദ്ധം ചെയ്യാനോ യുദ്ധം ചെയ്യാൻ പഠിക്കാനോ അല്ല സംഘർഷങ്ങൾ തുടർന്ന് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക അത് നിങ്ങളെക്കുറിച്ചാണ് തുടർന്ന് അത് നിങ്ങളെ കാര്യത്തിലും സഹായിക്കുന്നു കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കുകയും പുതിയ ജോലികൾക്കായി സമയം സൃഷ്ടിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം വിശ്രമിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ സമ്മർദ്ദം തകർക്കുക അല്ലെങ്കിൽ കൊല്ലുക തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കരുത് സമ്മർദ്ദം എന്നാൽ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന വസ്തുതയ്ക്ക് ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിച്ചു നിങ്ങൾ നിയന്ത്രിക്കുകയും നിങ്ങളുടെ സമ്മർദ്ദത്തിന് ദിശ നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്ക് സമ്മർദ്ദം നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ മാത്രമേ വ്യക്തിപരമായ ആരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കാനാകൂ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും രാത്രിയിൽ നന്നായി ഉറങ്ങാനും കഴിയും ഇവയെല്ലാം നിങ്ങളുടെ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട വശങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്തും ശ്രദ്ധാപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പദ്ധതിയുമായി പ്രവർത്തിക്കണം തുടർന്ന് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇരുപത് തവണ ജോലി ചെയ്യുമ്പോൾ എന്ന അർത്ഥത്തിൽ ജോലിയിൽ നിന്ന് ഇടയ്ക്കിടെ ഇടവേളകൾ എടുക്കുക നാല് മണിക്കൂർ ആ എട്ട് മണിക്കൂർ ഉറക്കത്തിനായി അവശേഷിക്കുന്നു നിങ്ങൾ പതിമൂന്ന് മണിക്കൂർ സ്വയം നീട്ടിയെന്ന് കരുതുക കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇടവേള നൽകണം പുറത്തുപോയി ഒരു കപ്പ് കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ പുറത്തുപോയി എവിടെയെങ്കിലും പതുക്കെ നടക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിൽ നിൽക്കുകയോ പുറത്തുള്ള പ്രകൃതിയെ കാണുകയോ ചെയ്യുക ഇത് നിങ്ങൾ തിരികെ വരുന്നതിന് ഉന്മേഷം നൽകുകയും തുടർന്ന് നിങ്ങളുടെ ജോലി തുടരുകയും ചെയ്യും അതിനാൽ ഇടവേളകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകും സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സമ്മർദ്ദം അടിഞ്ഞുകൂടാതിരിക്കുക സമ്മർദ്ദത്തിൽ നിന്ന് വേഗത്തിൽ മോചനം നേടുന്നതിനുള്ള ചില ലളിതമായ നുറുങ്ങുകളോടെ ഞാൻ ഇപ്പോൾ ഉപസംഹരിച്ചു സ്വാഭാവിക പശ്ചാത്തലത്തിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിനോട് തണുത്തതോ ചൂടുള്ളതോ ആയ ഷേവർ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവ കേൾക്കുക പ്രിയപ്പെട്ട സിനിമ കാണുകയോ പ്രിയപ്പെട്ട നോവലുകളോ പേജുകളോ വായിക്കുകയോ ചെയ്യുന്നത് ആശ്വാസം പകരുന്ന സംഗീതമാണ് കോഴ്സിലുടനീളം ഞാൻ ചർച്ച ചെയ്ത ചില പുസ്തകങ്ങൾ പ്രചോദിപ്പിക്കുന്നതിന് പോലും നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ക്ഷേത്രമോ ചില ആളുകൾക്കായി ധ്യാനിക്കാൻ കഴിയുന്ന സ്ഥലമോ ആകാം ഇത് ഒരു മാളിൽ ഷോപ്പിംഗ് നടത്തുന്നതായിരിക്കാം അത് അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതും മൊത്തത്തിൽ ചിരിക്കുകയല്ലാതെ മറ്റൊന്നും സമ്മർദ്ദമാകില്ല അതിനാൽ ചിരിക്കുകയും ആളുകളെ ചിരിപ്പിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങളുടെ വ്യക്തിപരവും വ്യക്തിപരവുമായ സമ്മർദ്ദത്തെ സന്തുലിതമാക്കാൻ നിങ്ങൾ ശ്രമിക്കും ബന്ധങ്ങൾ ഇപ്പോൾ ഇതിനായുള്ള നമ്മുടെ പ്രധാന വിഷയ ശീലങ്ങളിലേക്ക് വരുന്നു പ്രത്യേകിച്ചും ഈ ആഴ്ചയിലെ ശീലങ്ങൾ എങ്ങനെ നിർവചിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ നിർവചിക്കണമെന്ന് നമ്മൾ നോക്കും ഞങ്ങളുടെ വികസനത്തിന്റെ ഭാഗമായി ഇതിനെ കാണുന്ന കാര്യത്തിൽ നിങ്ങൾ ശീലങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും എന്തുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഇത് അഭിസംബോധന ചെയ്യേണ്ടത് ശരി പിന്നെ ഞാൻ വീണ്ടും ശീലങ്ങളെ നോക്കാൻ പോകുന്ന രീതി പഴയതുപോലെയല്ല പൊതുവായ മനഃശാസ്ത്രപരമായ പുസ്തകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷേ അത് ധാരാളം പ്രായോഗികതയോടൊപ്പമാണ് വിവേകവും ഈ ശീലത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതും നമ്മുടെ പോസിറ്റീവ് എനർജി ഉപയോഗപ്പെടുത്തുന്നതിന് അതുപോലെ ഓരോ മനുഷ്യരിലും ഇപ്പോൾ ഉള്ള നിഷേധാത്മക ചിന്തയെ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ നിർവചിക്കുന്ന ശീലം തിരിച്ചറിയാൻ ശ്രമിക്കും തുടർന്ന് എങ്ങനെ എന്ന് മനസിലാക്കാൻ ശ്രമിക്കും ശീലം നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് ഇപ്പോൾ നല്ലതും ചീത്തയുമായ ശീലങ്ങൾ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് ഏതുതരം ശീലങ്ങളുണ്ടെന്നും അത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് ഒരു നല്ല ശീലമായാലും മോശം ശീലമായാലും ഇന്റർനെറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ച ചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ന്യൂയോർക്ക് സമയത്തോ മറ്റേതെങ്കിലും പത്രത്തിലോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകാം അവിടെയുള്ള ചിത്രത്തിൽ അതിന്റെ രൂപം നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും പിന്നീട് ഒരു മാറ്റവുമില്ലാതെ നീങ്ങുകയും ചെയ്യുന്ന ഒരുതരം പാത എന്നാൽ അതേ സമയം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചലനം നടത്തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവകാശപ്പെടുന്നുവെങ്കിലും പലപ്പോഴും ഈ പ്രസ്ഥാനത്തിന് ഒരു പുരോഗതിയും ഇല്ല അതിനാൽ ശീലം ശീലത്തിലേക്ക് നോക്കാം എന്നിട്ട് നിങ്ങളിൽ ചിലർക്ക് അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു മിക്ക ആളുകളുടെയും ശീലം അവർ സാധാരണയായി സ്വമേധയാ പതിവായി ചെയ്യുന്ന ഒന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വിഷമിക്കുകയോ ചെയ്യാതെ ശ്രദ്ധ ചെലുത്തുന്നത് ചിലപ്പോൾ പൂർണ്ണമായും അബോധാവസ്ഥയിൽ മാത്രമായിരിക്കും നിങ്ങൾ ശീലംകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് അറിയില്ല അത് നിങ്ങൾ ചെയ്യുന്ന ശീലം പങ്കിടുക മാത്രമാണ് അവ രൂപപ്പെടുകയും തുടർന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ചില ഉദാഹരണങ്ങൾ ഉദാഹരണത്തിന് നഖങ്ങൾ കടിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ചിലപ്പോൾ നിങ്ങൾ അത് ബോധപൂർവ്വം ചെയ്യുന്നില്ല പരിഭ്രാന്തി അല്ലെങ്കിൽ താൽപ്പര്യക്കുറവ് പോലുള്ള ചില ചിന്തകൾക്ക് മനഃശാസ്ത്രജ്ഞൻ കാരണമാകും പല ചിന്തകൾക്കും കാരണമാകാൻ കഴിയും എന്നാൽ മാനസിക കാരണങ്ങൾ എന്തുതന്നെയായാലും ആ കടിക്കുന്ന നഖങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശീലമാണ് അതുപോലെ തന്നെ ഒരിക്കൽ മൂക്ക് എടുക്കുന്നതും ചിലപ്പോൾ ശരിയാണ് ആളുകൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നു ചിലപ്പോൾ അവർ ഇത് പരസ്യമായി ചെയ്യുന്നുവെന്ന് അവർക്ക് അറിയില്ല മറ്റുള്ളവർക്ക് മുമ്പ് ചില കുട്ടികൾ എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് മിക്ക കുട്ടികൾക്കും പൊതുവായി അവർക്ക് കഴിയില്ല ചോക്ലേറ്റുകൾ കഴിക്കുന്നത് ചെറുക്കുക അതിനാൽ അവർക്ക് പല്ലുവേദനയുണ്ടെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർ അത് നിയന്ത്രിക്കാൻ വീട്ടിലെ ചെറിയ മോഷണങ്ങൾ ചോക്ലേറ്റുകൾ മോഷ്ടിക്കുന്നതിലൂടെയോ മോഷ്ടിക്കുന്നതിലൂടെയോ ആരംഭിക്കുന്നു കേക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ശീലമാണ് നിങ്ങൾ നിയന്ത്രണത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ അത് മിക്കപ്പോഴും യാതൊരു നിയന്ത്രണവുമില്ലാതെ ചെയ്യുന്നു അബോധാവസ്ഥയിൽ അതിനാൽ മിക്കപ്പോഴും ആളുകൾ കരുതുന്നത് അവർക്ക് ഒരു ശീലം ഉണ്ടാക്കാനും അത് എളുപ്പത്തിൽ തകർക്കാനും കഴിയുമെന്നാണ് ഒരു ശീലം തകർക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്നും അവർ അനുമാനിക്കുന്നു ഇത് ഒരു അനുമാനമാണെന്ന് നിങ്ങളോട് പറയുക ഈ അനുമാനങ്ങൾ കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ശീലങ്ങൾ രൂപപ്പെടുത്തുകയാണ് നല്ലതോ ചീത്തയോ പക്ഷേ നിങ്ങൾ ശീലത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ അതിലേക്ക് വരട്ടെ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ എളുപ്പമാണ് പ്രത്യേകിച്ചും അച്ഛന്റെ ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ എളുപ്പമാണ് ഞാൻ പറയുന്നതിനുമുമ്പ് അതിനെക്കുറിച്ച് കൂടുതൽ പറയട്ടെ ശീലങ്ങൾ എന്താണെന്ന് പറയാൻ ഞാൻ ശ്രമിക്കാം ശീലങ്ങളെ എങ്ങനെ നിർവചിക്കാം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വാക്കാലുള്ള നോൺ വെർബൽ ചലനത്തെ അർത്ഥമാക്കുന്ന ഉത്തേജകങ്ങളോടുള്ള പെരുമാറ്റ പ്രതികരണങ്ങളാണ് പെരുമാറ്റത്തിന്റെ കാര്യത്തിലും അത് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തേജകങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലും പ്രകടിപ്പിച്ചതുപോലെ ശരി പരിസ്ഥിതിയിൽ നിന്ന് പ്രചോദിപ്പിക്കപ്പെടുന്ന ഒന്ന് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് പതിവ് പ്രശസ്തിക്ക് ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ശീലത്തെക്കുറിച്ച് രസകരമായ കാര്യം പെരുമാറ്റ രീതികൾ രൂപപ്പെടുത്തുകയും യാന്ത്രികമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിനർത്ഥം തുടക്കത്തിൽ നിങ്ങൾ ചിലത് രൂപപ്പെടുത്താൻ തുടങ്ങുന്നു എന്നാണ് ശീലങ്ങൾ പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ശീലങ്ങൾ എപ്പോൾ വേണമെങ്കിലും യാന്ത്രികമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അത് ഒരു ഉത്തേജനം കാണുകയും തുടർന്ന് നിങ്ങളുടെ തലച്ചോറിലെ സിസ്റ്റത്തിൽ എന്തോ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നു എന്നിട്ട് അത് ഒരു പ്രതികരണമോ പ്രതികരണമോ നൽകുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ ഒരു ശീലമാണ് പക്ഷേ ഞാൻ ചിത്രത്തിൽ പറഞ്ഞതുപോലെ അത് നിങ്ങളെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നതാണ് ചില പാറ്റേൺ ബിഹേവിയറൽ പാറ്റേണിൽ നമ്മൾ ചിന്തിക്കാൻ ഒരു രക്ഷപ്പെടൽ അല്ലെങ്കിൽ രക്ഷപ്പെടൽ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ നല്ല ശീലങ്ങളുടെയും മോശം ശീലങ്ങളുടെയും കാര്യത്തിൽ മോശം ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് എളുപ്പമാണ് പക്ഷേ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് മോശം ശീലങ്ങൾ തകർക്കുന്നത് ബുദ്ധിമുട്ടാണ് മനസ്സുകൾ രൂപപ്പെടുത്താൻ എളുപ്പമാണ് മോശം ശീലങ്ങൾ എന്നാൽ മോശം ശീലങ്ങൾ തകർക്കാൻ പ്രയാസമാണ് അവ എളുപ്പത്തിൽ രൂപപ്പെടുന്നു പക്ഷേ അത് മോശമാണ് അവർ വളരെ കഠിനമായി മരിക്കുന്ന ശീലങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് അത്ര എളുപ്പത്തിൽ പോകില്ല അതിനാൽ ഉദാഹരണത്തിന് പുകവലി എടുക്കുക ഇപ്പോൾ ഇത് ഒരു സ്കൂൾ ദിവസങ്ങളിലോ കോളേജ് ദിവസങ്ങളിലോ ഒരു രസകരമായ ഓക്കേ ആയി ആരംഭിക്കുന്നു തുടർന്ന് അത് തുടരുന്നു കല്യാണം വരെ ശരിയാണെന്നും അതിനുശേഷം വിവാഹത്തിന് മുമ്പാണെന്നും പറയാം അതിനാൽ ആൺകുട്ടി യഥാർത്ഥത്തിൽ പെൺകുട്ടിയുമായി പ്രണയത്തിലായപ്പോൾ നിങ്ങൾ നിർത്തുന്നതുവരെ ആ പെൺകുട്ടി ആൺകുട്ടിയോട് പറയുന്നു ഈ ശീലം ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഇത് ആ വ്യക്തിയുടെ ഒരു സാഹചര്യമാണ് ശരി അവൻ അത് ഉപേക്ഷിക്കുമെന്ന് യഥാർത്ഥത്തിൽ കരുതുന്നു പക്ഷേ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുവെങ്കിൽ വളരെ വൈകാരികമായി നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അവൻ അത് നിർത്തുന്നുവെന്ന് പറയാം പക്ഷേ അവർ വിവാഹിതരാണ് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു തുടർന്ന് അവൻ ഒരിക്കൽ തൻറെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അവർ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ആരോ അവനോട് പറയുന്നു ഓ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒത്തുതീർന്നു നിങ്ങളുടെ സന്തോഷം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇല്ല ചില സിഗരറ്റുകൾ ഇപ്പോൾ ചില പഴയ ശീലങ്ങൾ തകർക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണിത് കഠിനമായി മരിക്കുന്ന ശീലങ്ങൾ പ്രത്യേകിച്ച് മോശം ശീലങ്ങൾ മിക്കവാറും ആ വ്യക്തിക്ക് മടുപ്പുണ്ട് അപ്പോൾ അവൻ അത് എടുക്കുമെന്ന് കരുതുന്നു തുടർന്ന് മുമ്പത്തെപ്പോലെ ബെഞ്ച് പുകവലി തുടരുന്നു അവൻ രണ്ട് സിഗരറ്റുകൾ വലിക്കുന്നുവെന്ന് നമുക്ക് പറയാം പക്ഷേ അവൻ ഇപ്പോൾ അഞ്ച് ആറ് സിഗരറ്റുകൾ വലിക്കും ഇത് പുകവലി നഷ്ടമായ സമയത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുപോലെ അതിനാൽ ഈ മോശം ശീലങ്ങൾ പ്രത്യേകിച്ച് കഠിനമായി മരിക്കുന്നു തുടർന്ന് അവ പുറത്തുവരാം തുടർന്ന് കുറച്ച് സമയത്തേക്ക് ഐസ് ബർഗ് പോലെ നിൽക്കുക അതിനാൽ പോകുന്നതിനുമുമ്പ് നമ്മൾ ഇപ്പോൾ അത് കൈകാര്യം ചെയ്യണം ഞാൻ ഏത് തരത്തിലുള്ള മോശം ശീലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നതുപോലുള്ള മോശം ശീലങ്ങളോട് ധാർമ്മികമോ ധാർമ്മികമോ ആയ എന്തെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചിന്തയാണ് എനിക്ക് നല്ലത് എങ്ങനെ നല്ലതും ചീത്തയുമായ ശീലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു തരത്തിലുള്ള മതപരമോ ധാർമ്മികമോ നൽകുന്നില്ല അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ എന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ചില മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ ഉണ്ടായിരിക്കാം നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതും ചീത്ത ശീലങ്ങൾ ഉണ്ടാക്കുന്നതും എന്താണെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ചില തത്വങ്ങൾ ആദ്യത്തേത് നോക്കൂ മോശം ശീലങ്ങൾക്ക് വലിയ പരിശ്രമങ്ങൾ ആവശ്യമില്ല ശക്തിയും പ്രചോദനവും അത് രൂപപ്പെടുത്തുകയോ പരിപാലിക്കുകയോ ചെയ്യുക എന്നതിനർത്ഥം വലിയ പരിശ്രമങ്ങൾ ആവശ്യമുള്ള നല്ല ശീലങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നാണ് മോശം ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിനോ നിലനിർത്തുന്നതിനോ ഉള്ള ശക്തിക്കും പ്രചോദനത്തിനും അത്തരം ശ്രമങ്ങൾ ആവശ്യമില്ല ഉദാഹരണത്തിന് ജങ്ക് ഫുഡ് കഴിക്കുന്നത് എടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ജങ്ക് ഫുഡ് കഴിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ജങ്ക് ഫുഡ് ചിപ്പുകൾ ഉദാഹരണത്തിന് നിങ്ങൾ സിനിമകൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമാണ് ഫ്രഞ്ച് അരിയോ ഏതെങ്കിലും എണ്ണമയമുള്ള വസ്തുക്കളോ കഴിക്കുക പ്രത്യേകിച്ചും നിങ്ങൾക്ക് താൽപ്പര്യമുള്ളപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുകയാണെന്ന് പോലും നിങ്ങൾ കരുതുന്നില്ല ഇത് രൂപപ്പെടാൻ എളുപ്പമാണ് തുടർന്ന് പതുക്കെ നിങ്ങൾ അത് കഴിക്കാനുള്ള വിശപ്പ് വികസിപ്പിക്കുകയും തുടർന്ന് അത് തുടരുകയും ചെയ്യുന്നു നിങ്ങളുടെ മോശം ശീലങ്ങൾ മറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ പലപ്പോഴും സംസാരിച്ച രണ്ടാമത്തെ തത്വം നോക്കുക മറ്റുള്ളവരിൽ നിന്ന് നല്ല ശീലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല ശീലങ്ങൾ ഉള്ളതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനം കാരണം നിങ്ങൾ വിദ്യാർത്ഥിയെ വേർതിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് പറയാം നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ കുറച്ച് മെഡലുകൾ നേടി തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡലുകൾ പ്രദർശിപ്പിക്കണം ആളുകളോട് പറയാൻ ഞാൻ കഠിനാധ്വാനം ചെയ്തു തുടർന്ന് എനിക്ക് പ്രയോജനം ലഭിച്ചു ഞാൻ ഈ പഠന ശീലം വികസിപ്പിച്ചു ഒരു ദിവസത്തിൽ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ ഞാൻ ഈ മെഡിക്കൽ പരിശോധനയിൽ വിജയിച്ചു ഈ ജി ഇ പരീക്ഷയിൽ ഞാൻ ഈ ഒന്നാം സമ്മാനം നേടി ഇപ്പോൾ നിങ്ങൾ വികസിപ്പിച്ചെടുത്ത ഈ നല്ല ശീലങ്ങളെല്ലാം പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ മോശം ശീലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ലജ്ജയോ കുറ്റബോധമോ തോന്നുന്നു ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ആസക്തികൾ എടുക്കുക ശരി ആരെങ്കിലും ഇല്ലാതെ കുടിക്കുന്നു അമ്മയോ ഭാര്യയോ വരുമ്പോൾ അമ്മയെയോ പങ്കാളിയെയോ കുറിച്ചുള്ള അറിവ് ഇപ്പോൾ ശരിയാണ് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു നുണ പറയാനോ അല്ലെങ്കിൽ താൻ എവിടെയോ പോയി എന്ന് നടിക്കാനോ ആഗ്രഹിക്കുന്നു എന്നാൽ സുഹൃത്തുക്കൾ അത് ചെയ്യുകയായിരുന്നു എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് മദ്യം കഴിച്ചു വീട്ടിൽ താൻ യഥാർത്ഥത്തിൽ കുടിച്ചിട്ടില്ലെന്ന് മറച്ചുവെക്കാൻ എന്തെങ്കിലും കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഉറുമ്പുകളുടെ തരത്തിലുള്ള ആസക്തി നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മിക്ക സമയത്തും കുടിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത് ഒരു മോശം ചിന്തയാണെന്ന് നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് മോഷ്ടിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് ഇത് മറയ്ക്കാൻ നിങ്ങൾ സാധാരണയായി ആഗ്രഹിക്കുന്നു എന്നതാണ് ഒരു തത്വം അതിനാൽ ആളുകൾ മോഷ്ടിക്കുന്നു പക്ഷേ ആരെങ്കിലും കാണുന്നുവെന്ന് അവർക്ക് അറിയാമെങ്കിൽ മാത്രം കടയിൽ നിന്ന് എന്തെങ്കിലും ഉയർത്തുന്നതിനാൽ കടകളെക്കുറിച്ച് ഞാൻ കേട്ടു അതിനാൽ അവർ എന്താണ് ചെയ്യുന്നത് എന്നതുമാത്രമാണ് ശിക്ഷ അവർ കൊടുക്കുന്നത് അവർ ഉയർത്തുമ്പോൾ അവർക്ക് മറഞ്ഞിരിക്കുന്ന ക്യാമറകളുണ്ട് തുടർന്ന് അവർ ആ വ്യക്തിയെ പിടികൂടുന്നു തുടർന്ന് ആ വ്യക്തി കൌണ്ടറിൽ എത്തുമ്പോഴേക്കും അവർ ആ വ്യക്തിയെ പിടികൂടുകയും ഫോട്ടോ അവർ അവരുടെ മുൻവശത്തെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ അത് പത്രത്തിലേക്ക് അയയ്ക്കുകയോ ചെയ്യുന്നു അവർ നൽകുന്ന ശിക്ഷ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ നാണം കെടുത്തുന്നതിനാൽ അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ തുല്യനാക്കുന്നു കുറ്റബോധം തോന്നുന്നു മോശം ശീലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കുറ്റബോധം തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റബോധം തോന്നാത്ത ശീലങ്ങൾ ശരിയാണ് ഇപ്പോൾ മൂന്നാമത്തെ തത്വം നോക്കൂ ഒരു മോശം ശീലവും ദീർഘകാലാടിസ്ഥാനത്തിൽ മറയ്ക്കാൻ നിങ്ങൾക്ക് ഒരു വഴിയുമില്ല ഓടുക ഉദാഹരണത്തിന് തുടക്കത്തിൽ ഞാൻ മോഷ്ടിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ ഒരു വിദഗ്ദ്ധനാണ് അപ്പോൾ ആളുകൾ അറിയില്ല പക്ഷേ ദിവസം വരും നിങ്ങൾ പിടിക്കപ്പെടും മറ്റ് ഉദാഹരണങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ പുകവലിക്കാരനാണെങ്കിൽ ശരി തുടർന്ന് ചെയിൻ പുകവലിക്കാരനാണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് അത് മറയ്ക്കാൻ കഴിയും പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആളുകൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് അത് മണക്കും നിങ്ങളുടെ ആരോഗ്യവും നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ ചുമക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഈ പുകവലി നിങ്ങളെ അതിനേക്കാൾ കൂടുതൽ കൊല്ലുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരഭാഷ നിങ്ങൾക്കുള്ള മിക്ക മോശം ശീലങ്ങളും വെളിപ്പെടുത്തും ഉദാഹരണത്തിന് നിങ്ങൾ രാത്രിയിൽ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ഉറങ്ങുന്നില്ലെങ്കിൽ രാവിലെ തന്നെ ആളുകൾ കാണും ഒന്നുകിൽ ചിലർക്ക് മുഖം പരുക്കനാകും ചിലത് അത് ചുരുങ്ങും ഒരു വലിയ വ്യത്യാസമുണ്ടെന്ന് അവർ ശ്രദ്ധിക്കും അവർക്ക് വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ അവ മങ്ങിയതിനാൽ മുഖത്ത് തന്നെ കൂടുതൽ ചുളിവുകൾ ഉണ്ടാകുന്നു ശരി പ്രത്യേകിച്ചും കണ്ണുകൾക്ക് താഴെ ഇത്തരത്തിലുള്ള വക്രതയുണ്ട് എല്ലാം രാത്രിയെ സൂചിപ്പിക്കുന്നു ചില കാരണങ്ങളാൽ ടിവി കാണുന്നതിലൂടെയോ മറ്റെന്തെങ്കിലുമോ ആ വ്യക്തിക്ക് ഒരു പ്രശ്നകരമായ രാത്രിയായിരുന്നു അത് ആ വ്യക്തി ഉറങ്ങിയിട്ടില്ലാത്തതിനാൽ നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഓരോ മോശം ശീലവും ഇതിൽ കാണാൻ കഴിയും മറ്റുള്ളവർ വളരെ എളുപ്പത്തിൽ ദീർഘനേരം ഓടുന്നു ഇപ്പോൾ ഞാൻ നൽകിയ ചില ഉദാഹരണങ്ങൾ നോക്കൂ അതിനാൽ മോശം ശീലങ്ങൾ രൂപപ്പെടുത്താൻ വളരെ എളുപ്പമാണ് നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പോൾ അവ വസ്ത്രധാരണം പോലെയാണ് നിങ്ങൾ അത് ഒരു കസേരയിലോ കിടക്കയിലോ മേശയിലോ അല്ലെങ്കിൽ നിങ്ങൾ എറിയുന്ന പേപ്പറുകൾ പോലെ എറിയുന്നു തുടക്കത്തിൽ നിങ്ങൾ ഒരെണ്ണം എറിയുകയും തുടർന്ന് ഒരെണ്ണം കൂടി എറിയുമെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യുന്നു രണ്ടെണ്ണം കൂടി എറിഞ്ഞാലും അത് വലിയ ഫയലായി മാറുന്നതുവരെ പ്രശ്നമല്ല അപ്പോൾ നിങ്ങളുടെ മുഴുവൻ സമയവും ചെലവഴിക്കുന്നില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് വൃത്തിയാക്കുന്ന ശീലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മേശയിലോ അല്ലെങ്കിൽ മേശയിലോ ഫയൽ ചെയ്യുന്ന പേപ്പറുകൾ പോലെയാണ് നിങ്ങൾ പതിവായി വൃത്തിയാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലാതെ ഫാനിൽ അടിഞ്ഞുകൂടുന്ന പൊടി അതിനാൽ അത് ശേഖരിക്കപ്പെടുകയും തുടർന്ന് അവിടെ തുടരുകയും തുടർന്ന് നിങ്ങൾ വൃത്തിയാക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കൂടുതൽ സമയം എടുക്കുന്നില്ലെന്ന് പറയാം എന്നാൽ നിങ്ങൾ ആറിൽ ഒരിക്കൽ വൃത്തിയാക്കുന്നത് തുടരുകയാണെങ്കിൽ മാസങ്ങളോ ഒരു വർഷമോ ആയതിനാൽ നിങ്ങൾ അത് നീക്കം ചെയ്യുകയും തുടർന്ന് യഥാർത്ഥത്തിൽ വൃത്തിയാക്കാൻ കൂടുതൽ സമയം എടുക്കുകയും വേണം ഈ ശീലം പതുക്കെ ക്രമേണ തുടരുന്നതുപോലെയാണ് പക്ഷേ അത് ഒരു കാലത്തേക്ക് നിങ്ങളോടൊപ്പം നിലനിൽക്കുന്നു മോശം ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലം ഇപ്പോൾ നല്ല ശീലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഉദാഹരണങ്ങൾ നോക്കൂ നല്ല ശീലങ്ങൾ സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെയാണ് അതിനാൽ നിങ്ങൾ സ്വർണം ശുദ്ധീകരിക്കുമ്പോൾ എന്തുചെയ്യും നിങ്ങൾ അത് ശുദ്ധീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ കത്തിക്കുന്നതിലൂടെ നിങ്ങൾ അത് ഫാർനെസിൽ ഇടുന്നു നിങ്ങൾ അത് കത്തിക്കുന്നു അതിനാൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും തുടർന്ന് നിങ്ങൾ അവയെ ശുദ്ധമായ ബിസ്കറ്റുകളായി മാറ്റുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു നല്ല ശീലം വളർത്തിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണം വേദനാജനകമാണ് അത് ഒരു സുവർണ്ണ ശീലം പോലെയാണ് ഇത് ശരിക്കും വളരെ വേദനാജനകമായ ഒരു ജോലി ആരംഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ അതിനെ സ്വർണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് വളരെയധികം പ്രതിഫലം നൽകും വജ്ര നിർമ്മാണവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അത് രൂപപ്പെടുത്തുന്നതിൽ നല്ല ശീലങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് കൽക്കരിയിൽ നിന്നുള്ള വജ്രം കൽക്കരിയിൽ നിന്ന് മാത്രമല്ല നിർമ്മിക്കുന്നത് അതിനാൽ അവർക്ക് അത് ആവശ്യമാണ് അവർക്ക് അത് പോളിഷ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ അവർ അത് അടിക്കേണ്ടതുണ്ട് അതിനാൽ അവർ അത് ആ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കേണ്ടതുണ്ട് വജ്രത്തിൻറെ ആ കൃത്യതയും അതിൻറെ പരിശുദ്ധിയും ലഭിക്കുന്നതിനായി ഒരു നല്ല ശീലം രൂപപ്പെടുത്തുന്നു അതിനാൽ ഒരു നല്ല ശീലം രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ വളരെയധികം സമ്മർദ്ദവും വേദനാജനകവും അനുഭവിക്കേണ്ടതുണ്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണെങ്കിലും അത് രൂപപ്പെട്ടുകഴിഞ്ഞാൽ അത് സ്വർണ്ണമോ വജ്രമോ പോലെ നിലനിൽക്കുന്നു നിങ്ങളും വെള്ളിയും പോലെ നിങ്ങൾ അത് നന്നായി പോളിഷ് ചെയ്യേണ്ടതുണ്ട് ഞാൻ നോബിൾ ലോഹങ്ങളുമായി താരതമ്യം ചെയ്യുന്നതുപോലെ എന്നാൽ നിങ്ങൾക്ക് അതിനെ നല്ല ശീലങ്ങളുമായി താരതമ്യം ചെയ്യണമെങ്കിൽ മറ്റേതെങ്കിലും ലോഹത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ചെമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും മിനുക്കിയതാക്കാൻ നിങ്ങൾ പരിപാലിക്കേണ്ടതുണ്ടെന്ന് പറയാം അവ ശരിക്കും സ്വർണ്ണമാണ് അവ യഥാർത്ഥത്തിൽ വജ്രങ്ങൾ പോലെയാണെങ്കിലും അതിന് അത് ആവശ്യമാണ് അറ്റകുറ്റപ്പണികൾ നിങ്ങൾ അത് മിനുക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം അങ്ങനെ അത് നന്നായി കാണപ്പെടുന്നു പക്ഷേ ഒന്നുമില്ല അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കാൻ പോകുന്നില്ലെങ്കിലും അതിന്റെ മൂല്യം ഒരിക്കലും നഷ്ടപ്പെടില്ല പതിവായി ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും തുടർന്ന് അത് തുടരും അടുത്തത് മോശം ശീലങ്ങൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് ഇത് മകൻ തമ്മിലുള്ള ഒരു കഥയാണ് ഒരു പിതാവ് ഇപ്പോൾ മകൻ എന്താണ് ചെയ്തത് അവൻ വളരെ തമാശക്കാരനായ ഒരു കുട്ടിയായിരുന്നു നിങ്ങൾക്ക് മോശമായി പറയാം കുട്ടിക്കാലം മുതൽ അവൻ ധാരാളം തെറ്റുകൾ ചെയ്തിരുന്നതിനാൽ അവൻ മറ്റുള്ളവരെ കടിക്കാൻ തുടങ്ങി അവൻ മോശമായി വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അവൻ മോഷ്ടിക്കാൻ തുടങ്ങി അവൻ എല്ലാത്തരം ദുഷ്കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങി സാധാരണയായി ഒരു പിതാവ് സഹിക്കില്ല എന്നാൽ ഈ പിതാവ് മകനെ ബോധ്യപ്പെടുത്തുന്നതിനായി അവൻ എന്താണ് ചെയ്യുന്നത് അവൻ ചെയ്ത ഓരോ തെറ്റും മകൻ പിതാവിനോട് ചെയ്ത ഓരോ ചീത്ത കാര്യവും പിന്നെ അയാൾ പോയി ഒരു ആണി എടുത്ത് ഒരു ചുമരിൽ അടിച്ചു ഒരു മുറിയിൽ അയാൾ സ്റ്റോർ റൂമിലേക്ക് പോയി അവൻ അത് സ്വതന്ത്രമായി സൂക്ഷിച്ചു തുടർന്ന് മകൻ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അവൻ ചുമരിൽ നഖം കെട്ടിയിരുന്നു അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുകയോ ഏതെങ്കിലും മോശം പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുക ഇപ്പോൾ മകൻ വളർന്നു അവൻ മറ്റ് നിരവധി തെറ്റുകൾ ചെയ്യുന്നതിൽ വളർന്നു അവൻ ആരെയെങ്കിലും മിക്കവാറും കൊന്നു തുടർന്ന് തൻറെ സ്നേഹത്തിന് പ്രതികരിക്കാൻ വിസമ്മതിച്ച ഒരു സ്ത്രീ വളരെ അക്രമാസക്തമായി പീഡിപ്പിക്കപ്പെട്ടു അപ്പോഴാണ് അവളുടെ പിതാവ് ഇടപെട്ടത് തുടർന്ന് താൻ അങ്ങനെയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തു തുടർന്ന് പിതാവ് പോയി ചുമരിൽ ആണി കെട്ടുന്നത് അദ്ദേഹം കണ്ടു അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ നിങ്ങൾ ചെയ്ത ഓരോ തെറ്റും പിതാവ് പറഞ്ഞു നിങ്ങളുടെ ഓരോ മോശം ശീലത്തിനും ഞാൻ ചുമരിൽ ഒരു ആണി ഉറപ്പിക്കുകയായിരുന്നു അതിനാൽ മകൻ അമിതമായിരുന്നു അതിനാൽ മതിൽ നഖങ്ങളാൽ നിറഞ്ഞതിനാൽ അവൻ വേദനയോടെ ഒരു പുറം എടുക്കുകയായിരുന്നു അപ്പോൾ അവൻ ചോദിക്കുന്നു പിതാവേ തീർച്ചയായും നിങ്ങൾ ചെയ്ത എല്ലാ ചെറിയ കാര്യങ്ങളും തെറ്റാണ് ഇത് മോശമാണ് ഞാൻ ഒരു ആണി ഉറപ്പിച്ചിരുന്നു അതിനാൽ അതെ താൻ വളരെയധികം ചെയ്തുവെന്ന് മകൻ മനസ്സിലാക്കി കുറ്റകൃത്യത്തിന്റെ നിബന്ധനകൾ കാരണം അവൻ പിതാവിനോട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു അതിനാൽ നിങ്ങൾക്ക് കഴിയുമെന്ന് പിതാവ് പറഞ്ഞു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ശരിക്കും തോന്നുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഓരോ നല്ല കാര്യവും നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഓരോ നല്ല ശീലവും ഞാൻ ചെയ്യും നിങ്ങളുടെ മോശം ശീലത്തിന് പകരം നിങ്ങളുടെ മോശം പ്രവൃത്തിക്ക് പകരം നല്ല ശീലം കൊണ്ടുവരാൻ ശ്രമിക്കുക നല്ല പ്രവൃത്തിയോടെ ഞാൻ ഓരോന്നായി ആണി നീക്കം ചെയ്യും അതിനാൽ പിതാവ് ദിവസങ്ങൾ കടന്നുപോയി മാറ്റം വരുത്തിയ മകനെ ഓരോന്നായി നീക്കംചെയ്യുന്നു അവൻ നുണ പറയുന്നത് നിർത്തുന്നു മറ്റുള്ളവരുമായി ഇടപഴകുന്നത് നിർത്തുന്നു അവൻ വളരെ നല്ലവനായിത്തീർന്നു വാസ്തവത്തിൽ അവൻ മാറി അവൻ വളരെ നല്ല ഒരു ഉദ്യോഗസ്ഥനായി തുടർന്ന് അവൻ വളർന്നു പിന്നെ അവൻ ഒരു സി ഒ ആയി മാറി തുടർന്ന് താൻ പീഡിപ്പിച്ച അതേ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി മാപ്പ് പറഞ്ഞു അവൻ അവളോട് ക്ഷമ ചോദിച്ചതിനാൽ ഈ ആൾ പൂർണ്ണമായും മാറിയെന്ന് അവൾ മനസ്സിലാക്കി അവൻ അവളെ വിവാഹം കഴിച്ചു പിന്നെ അവർക്ക് ഒരു കുട്ടിയും ജനിച്ചു പിന്നെ തുടക്കം മുതൽ അവൻ ചിന്തിച്ചു അവൻ തന്നെപ്പോലെ കുട്ടിയെ വളർത്തില്ലെന്നും തുടർന്ന് താൻ നിർമ്മിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ധാരാളം പണം ചെലവഴിച്ചുവെന്നും ഒരു ആശുപത്രിയിൽ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചു തുടർന്ന് മുഴുവൻ രാജ്യത്തെയും പോലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു ആ വ്യക്തിയും പിന്നെ അച്ഛനും വളരെ സന്തോഷിച്ചു മകനും അതെ എന്ന് ചിന്തിച്ചു താൻ ചെയ്തുവെന്ന് മോശമായി കരുതുന്നതെന്തും ഭേദഗതി ചെയ്യുകയും തുടർന്ന് അദ്ദേഹം പിതാവിനോട് ചോദിക്കുകയും ചെയ്തു എത്ര നഖങ്ങൾ നീക്കംചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു മകനേ നീ അവസാനമായി ക്ഷേത്രം നിർമ്മിച്ചത് ഞാനാണ് അവസാനത്തെ ആണി നീക്കം ചെയ്തു ഓ ശരി അവൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്നിട്ട് അവർ പോയി എടുത്തു ഒരിക്കൽക്കൂടി നോക്കിയപ്പോൾ സൂര്യൻ അമ്പരന്നു കാരണം പിതാവ് അത് നീക്കം ചെയ്തെങ്കിലും നഖങ്ങളുടെ ദ്വാരങ്ങൾ അപ്പോഴും ശരിയായിരുന്നു മതിൽ അപ്പോഴും നഖങ്ങളുടെ ദ്വാരങ്ങൾ വഹിച്ചിരുന്നു അവ സ്ഥിരപ്പെടുത്തുകയും എന്നിട്ടും അവർ വൃത്തികെട്ടതായി കാണുകയും ചെയ്തു ഇപ്പോൾ മകൻ പിതാവിനോട് ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായും മാറി ഞാൻ മനുഷ്യവർഗത്തിന് ധാരാളം നല്ല ചിന്തകൾ ചെയ്തു പിന്നെ എനിക്ക് എന്തെങ്കിലും മോശം ശീലം ബാക്കിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല ഞാൻ പൂർണ്ണമായും പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണെന്ന് അവർ കരുതുന്നു എന്നാൽ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് പിതാവ് പറഞ്ഞു മകനേ ഒരിക്കൽ നിങ്ങൾ ഒരു മോശം ശീലം രൂപപ്പെടുത്തുകയും അതിനുശേഷം നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മോശം ശീലത്തെ അടിസ്ഥാനമാക്കിയുള്ള നിങ്ങളുടെ പ്രവർത്തനം അതിനു പകരം നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വ്യത്യസ്തമായ ചിന്തകളും എന്നാൽ തെറ്റായ പ്രവൃത്തികളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത മോശം ശീലങ്ങളും ആ പ്രവൃത്തികൾ എന്നെന്നേക്കുമായി നിലനിൽക്കും നിങ്ങൾക്ക് അത് മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കാം നല്ല പ്രവൃത്തികൾ പക്ഷേ നിങ്ങൾക്ക് അടയാളങ്ങൾ പൂർണ്ണമായും മായ്ക്കാൻ കഴിയില്ല അതിനാൽ മോശം ശീലങ്ങൾ മായാത്തതായി അവശേഷിക്കുന്നു ശരി എന്ന് അടയാളപ്പെടുത്തുക അതിനാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയില്ല അതിനാൽ അടയാളങ്ങൾ ഇപ്പോഴും അവിടെ ഓർമ്മിപ്പിക്കുന്നു അത് നിങ്ങൾ ഒരു മോശം ശീലം ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനമാണ് അത് ശരി ഒരു നല്ല ശീലത്തിലൂടെ ഞാൻ അത് മാറ്റുമെന്ന് ഞാൻ പിന്നീട് മാറ്റും എന്നാൽ ആ മോശം ശീലവുമായി നിങ്ങൾ ചെയ്തിരിക്കാവുന്ന പ്രവൃത്തി അത് ഓർമ്മിപ്പിക്കാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയില്ല അങ്ങനെ മോശം ശീലത്തിന്റെ അടയാളം നിലനിൽക്കും അത് നീക്കം ചെയ്യാൻ കഴിയില്ല അതിനാൽ അത് മനസ്സിൽ വച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു സ്വയം നോക്കാനും ആത്മപരിശോധന നടത്താനും ആവശ്യപ്പെടുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന മോശം ശീലങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയും തുടർന്ന് എഴുതിവയ്ക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് എത്ര മോശം ശീലങ്ങളുണ്ട് എത്ര നല്ല ശീലങ്ങളുണ്ട് എത്രയുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നല്ല ശീലങ്ങളും ശരിയാണ് ഇത്തരത്തിലുള്ള ചിന്ത നിലനിർത്തുക തുടർന്ന് അതിൽ തിരിച്ചറിയുക അടുത്ത പ്രഭാഷണം നല്ല ശീലങ്ങളുടെയും മോശം ശീലങ്ങളുടെയും കാര്യത്തിൽ കൂടുതൽ തിരിച്ചറിയുന്നതിനൊപ്പം തുടരും നിങ്ങളിലുള്ള ഈ മോശം ശീലങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ആദ്യ പടി അടുത്ത ഘട്ടം നല്ല ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ പരിവർത്തനം ചെയ്യുക അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ കാണുമെന്ന് ചിന്തിക്കുക